ഇതിനെ സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നു കാരണം ഇൻപുട്ട് സ്റ്റെപ്പ് ആയി കണക്കാക്കപ്പെടുന്നു നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ഉണ്ടെന്നിരിക്കട്ടെ അതിനർത്ഥം അവിടെ ഒരു ഫലപ്രദമായ കപ്പാസിറ്റർ ഉണ്ടെന്നും നമ്മൾ അതിനുള്ളിലെ ഏതെങ്കിലും ബ്രാഞ്ച് എടുക്കുന്നുവെന്നും ആണ് അർത്ഥമാക്കുന്നത് അതിനെ Vx അല്ലെങ്കിൽ കറന്റ് Ix എന്ന് വിളിക്കാം അത് ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് മാത്രമാണ് ഉദാഹരണത്തിന് എനിക്ക് ഈ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു നമ്മൾ ഉറവിടം 0 ആയി സജ്ജമാക്കുമ്പോൾ ഈ കപ്പാസിറ്റർ സീരീസ് കോമ്പിനേഷനുമായി സമാന്തരമായി ലഭിക്കുന്ന ചില മുൻകരുതലുകളുള്ള ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് കൂടിയാണിത് എപ്പോഴും കാണപ്പെടുന്നത് സുനിശ്ചിതമായ ചില കാര്യങ്ങളോട് കൂടിയായിരിക്കും പക്ഷേ നമ്മൾ അത് അവഗണിക്കുകയാണ് പതിവ് ഇപ്പോൾ അതിനെ ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് എന്ന് വിളിക്കും ഇവിടെ ഒരു സ്റ്റെപ് ഇൻപുട്ടോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻപുട്ടോ ഉണ്ടായിരിക്കാം ഇവിടെ സ്റ്റെപ് അപ്പ് ചെയ്യുന്ന ഒരൊറ്റ ഇൻപുട്ട് നമുക്ക് പരിഗണിക്കാം സർക്യൂട്ടിലെ ഏതെങ്കിലും വോൾട്ടേജിന്റെയോ കറന്റ്ന്റെയോ പ്രതികരണം അത് കപ്പാസിറ്റർ വോൾട്ടേജായിരിക്കാം മറ്റെന്തെങ്കിലും ആകാം ഈ ഫോമിൽ ആകാം ഞാൻ ഇത് ഫൈനൽ വോൾട്ടേജുകൾക്കായി Vx ഇനിഷ്യൽ എന്നും എഴുതാം ഇതിനെ 0 എന്നും ആയി എടുക്കണം കാരണം അത് 0 നും 0 നും ഇടയിൽ ആകാം ഫൈനൽ എന്നത് കൊണ്ട് അനന്തത എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ എനിക്ക് ഇത് Vx പ്ലസ് Vx0 Vx ∞ എന്നും എഴുതാം ഈ ഭാഗം ഇതാണ് സ്വാഭാവിക പ്രതികരണത്തെ ഡൈസ് ചെയ്യുന്ന ഭാഗം ഇത് എക്സ്പോണൻഷ്യൽ t ബൈ tau e t𝝉 ആണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ച് ഡിഫറൻഷ്യൽ സമവാക്യം രൂപപ്പെടുത്തുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക തുടർന്ന് നിങ്ങൾക്ക് ഡെൽറ്റ ഡിറൈവ് ചെയ്യേണ്ടതായി വന്നേക്കാം അതിനായി ഇമ്പൾസ് ഫങ്ക്ഷൻ ഉപയോഗിച്ച് ഇടതും വലതും വശങ്ങളെ സന്തുലിതമാക്കാൻ ശ്രമിക്കുക എന്നാൽ ഇത് വരെ ചില കേസുകൾ പരിഹരിച്ചതിനാൽ ചില പൊതുവായ നിയമങ്ങൾ നമുക്കിവിടെ എഴുതാൻ കഴിയും അതിനാൽ ഈ പ്രതികരണം എഴുതാൻ നിങ്ങൾക്ക് ഈ മൂല്യങ്ങൾ Vx∞ V x 0 𝝉 എന്നിവ ആവശ്യമാണ് ഇപ്പോൾ പ്രാരംഭ അവസ്ഥയിൽ സ്റ്റെപ് ഇൻപുട്ട് നൽകുന്നതിന് മുൻപുള്ള കപ്പാസിറ്റർ വോൾടേജ് ആണ് തന്നിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് Vx കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ ഘടകം എപ്പോഴും കപ്പാസിറ്റർ ആയിരിക്കില്ല അത് മറ്റെന്തെങ്കിലും ആകാം ഉദാഹരണത്തിന് ഒരു RC സർക്യൂട്ട് ആണെങ്കിൽ റെസിസ്റ്ററിനു കുറുകെ വോൾടേജ് അല്ലെങ്കിൽ കറന്റ് ആണ് കണ്ടെത്തണ്ടത് ഇത് ഏതെങ്കിലും ബ്രാഞ്ച് മൊഡ്യൂൾ ആകാം ഇവിടെ നൽകിയിരിക്കുന്ന പ്രാരംഭ അവസ്ഥയിൽ t ൽ ഉള്ള ഇൻപുട്ടിന്റെ മൂല്യം 0 ന് തുല്യമാണ് സർക്യൂട്ട് വിശകലനം ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ ബ്രാഞ്ച് വോൾട്ടേജുകളും കണ്ടെത്താനാകും ഇവിടെ KVL KCL ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് ഒരു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ടിൽ ലഭിക്കും അതിനായി ഒരു പ്രാരംഭ വ്യവസ്ഥ മാത്രമേ ആവശ്യമുള്ളൂ ഇൻപുട്ടിന്റെ മൂല്യം എല്ലാ സമയത്തും നമുക്ക് അറിയാമായിരിക്കണം അതിനാൽ 0 നമ്മൾ അറിഞ്ഞിരിക്കണം അതിനായി ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം ഇത് 0 മുതൽ 5 വോൾട്ട് വരെയുള്ള സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ മൂല്യം ആണ് ഇതിന്റെ പ്രാരംഭ അവസ്ഥ 2 വോൾട്ട് ആണെന്ന് നൽകിയിട്ടുണ്ട് ഇവിടെ എനിക്ക് താൽപ്പര്യമുള്ളത് നിലവിലെ I R ആണ് അത് കൊണ്ട് തന്നെ IR എന്നതിന് ഒരു സമവാക്യം എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്റ്റെപ്പ് ഇൻപുട്ട് പ്രയോഗിക്കുന്നതിന് തൊട്ടുമുമ്പ് IR എന്താണ് ഇത് 1 കിലോ Ω 1KΩ ആണെന്ന് ഞാൻ പറയട്ടെ ഇത് 2 വോൾട്ട് ആണ് അതിനാൽ IR 2 മില്ലിആമ്പുകൾ 2mA ആണ് തുടക്കത്തിൽ ഞാൻ 0 വോൾട്ട് എടുക്കുന്നു ഈ ഗ്രൌണ്ടിനെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ 0 വോൾട്ട് ഉണ്ട് അവിടെ 2 വോൾട്ട് അതിനാൽ അത് 2 വോൾട്ട് ആ ദിശയിലാണ് ഇവിടെ IR എന്ന് അടയാളപ്പെടുത്തിയത് 2 മില്ലിയാംപുകളാണ് ഇതാണ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തയുടനെ സംഭവിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിങ്ങൾ ൽ നിന്ന് 0 ലേക്ക് പോകുമ്പോൾ ആദ്യം വോൾട്ടേജ് ഉറവിടത്തിന്റെയും കപ്പാസിറ്ററിന്റെയും മാത്രം ഏതെങ്കിലും ലൂപ്പുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കേണ്ടതുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിനുള്ള മാർഗ്ഗം വോൾട്ടേജ് സ്രോതസ്സുകളും കപ്പാസിറ്ററുകളും അല്ലാതെ മറ്റെല്ലാ റെസിസ്റ്ററുകളും അവഗണിക്കുക്കുക എന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് കപ്പാസിറ്റർ വോൾട്ടേജുകളിലെ ഏത് കുതിപ്പിനും പരിഹാരം കാണാനാകും ഈ സാഹചര്യത്തിൽ സ്റ്റെപ്പ് ഇൻപുട്ട് പ്രയോഗിച്ചതിനു ശേഷം കപ്പാസിറ്റർ വോൾട്ടേജിന്റെ മൂല്യം 2 ആയിരിക്കും കാരണം വോൾട്ടേജ് സോഴ്സുകളുടെയും കപ്പാസിറ്ററുകളുടെയും ലൂപ്പുകളില്ല റെസിസ്റ്ററുകൾ നീക്കം ചെയ്താലോ ഓപ്പൺ സർക്യൂട്ട് ആക്കിയാലോ ഒന്നും മാറ്റില്ല അതിനാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് IR അല്ലെങ്കിൽ 0 കണക്കാക്കാം ഇത് എന്താണ് 7 മില്ലിയാമ്പുകളും IR ന്റെ അന്തിമ മൂല്യവും എന്ന് നോക്കാം അത് എങ്ങനെ കണ്ടെത്താം അതിനായി നമുക്ക് കപ്പാസിറ്ററുകൾ ഓപ്പൺ സർക്യുട്ട് ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മൾ പീസ് വൈസ് കോൺസ്റ്റന്റ് വോൾട്ടേജുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് അതിനാൽ സ്റ്റെഡി സ്റ്റേറ്റിൽ കപ്പാസിറ്ററുകളിൽ സ്ഥിരമായ വോൾട്ടേജായിരിക്കും ഇതിനർത്ഥം അതിലൂടെയുള്ള കറന്റ് 0 ആയിരിക്കും ഈ സാഹചര്യത്തിൽ കപ്പാസിറ്ററുകളിലൂടെയുള്ള കറന്റ് IR തന്നെ ആയിരിക്കും അതിനാൽ ഇതും 0 ആകുന്നു അതിനാൽ ഇപ്പോൾ എന്താണ് ടൈം കോൺസ്റ്റന്റിന്റെ സമവാക്യം ഇത് ഒരു IR ആയിരിക്കുമെന്ന് പറയട്ടെ എന്താണ് 1 മൈക്രോ സെക്കന്റ് IR t സമവാക്യം എന്തായിരിക്കും ഇവിടെ t 0 യെക്കാളും കൂടുതൽ ആയിരിക്കും 7 മില്ലിയാംപ്സ് എക്സ്പോണൻഷ്യൽ t ബൈ 1 മൈക്രോ സെക്കന്റിൽ 7mAe t 1µs അത്രയേയുള്ളൂ സാധ്യമായ പരിഹാരങ്ങൾ രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ധാരാളം ഉൾക്കാഴ്ചകൾ നൽകുന്നു ഇത് വളരെ കൃത്യമല്ല കാരണം നിങ്ങൾ ഹാൻഡ് സ്കെച്ചുകൾ ചെയ്യുന്നു പക്ഷേ ഇതിന് ധാരാളം ഉൾക്കാഴ്ചകൾ നൽകാൻ കഴിയും t യുടെ മൂല്യം 0 ആകുമ്പോൾ IR ന്റെ വാല്യൂ നേരത്തെ ഉണ്ടായിരുന്ന 2 മില്ലിയാംപുകളിൽ 2mA നിന്ന് 7 ലേക്ക് കുതിക്കും തുടർന്ന് dk 0 ആകുമ്പോൾ എന്തായിരിക്കും അതിന്റെ മൂല്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഏകപക്ഷീയമായ സർക്യൂട്ടിനായി ഇത് ചെയ്യാൻ കഴിയും ഇവിടെ വോൾട്ടേജ് സ്രോതസ്സുകളുടെയും കപ്പാസിറ്ററുകളുടെയും ലൂപ്പുകൾ ഉള്ളപ്പോൾ മാത്രമേ കൂടുതൽ സങ്കീർണത ഉണ്ടാകൂ ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായി ആദ്യം ടൈം കോൺസ്റ്റന്റ് നിർണ്ണയിക്കുന്നു ഇത് നിങ്ങൾ 0 ന് തുല്യമായ ഉറവിടങ്ങളും എഫക്റ്റീവ് കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും വെച്ച് ടൈം കോൺസ്റ്റന്റ് നിർണ്ണയിക്കുന്നു തുടർന്ന് നിങ്ങൾ t0 ന് തുല്യമായ മൂല്യങ്ങൾ നിർണ്ണയിക്കും പ്രാരംഭ അവസ്ഥകളിൽ നിന്നും ചില സാധാരണ സർക്യൂട്ട് വിശകലനങ്ങളിൽ നിന്നും അത് 0 മുതൽ 0 വരെ അതിനു ജമ്പ് ചെയ്യാൻ സാധിക്കും തീർച്ചയായും വോൾട്ടേജ് സോഴ്സ് കപ്പാസിറ്റർ ലൂപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം അല്ലാത്തപക്ഷം എല്ലാ റെസിസ്റ്ററുകളും തുറക്കുക ഇത് ചെയ്യുന്നതിനുള്ള അടിസ്ഥാനം താഴെ പറയുന്നവയാണ് കപ്പാസിറ്ററുകളിലൂടെയുള്ള എല്ലാ കണക്ഷനുകളിലും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അനന്തമായിരിക്കും റെസിസ്റ്ററുകളിലൂടെയുള്ള കണക്ഷനുകൾ ഇപ്പോഴും പരിമിതമായിരിക്കും സർക്യൂട്ടിലെ എല്ലാ വോൾട്ടേജുകളും പരിമിതമാണ് അതിനാൽ നിങ്ങൾക്ക് ഈ നോഡുകൾ ഉണ്ട് അവിടെ നിങ്ങൾക്ക് റെസിസ്റ്ററുകളിൽ നിന്നുള്ള പരിമിതമായ വൈദ്യുതധാരകളും കപ്പാസിറ്ററുകളിൽ നിന്നുള്ള അനന്തമായ വൈദ്യുത പ്രവാഹങ്ങളും ഉണ്ടാകും ഇവിടെ എല്ലാ ഫൈനൈറ്റ് കറന്റ് സോഴ്സുകളും നീക്കിയാലും ഒന്നും തന്നെ സംഭവിക്കുകയില്ല കാരണം ഫൈനൈറ്റ് സോഴ്സുകൾ ഇൻഫിനിറ്റിയുമായി വളരെ ചെറുതാണ് അതാണ് ഇവിടുത്തെ ആശയം അതിനാൽ നിങ്ങൾ എല്ലാ റെസിസ്റ്ററുകളും തുറന്ന് സർക്യൂട്ട് വിശകലനം നടത്തുക നിങ്ങൾക്ക് വോൾട്ടേജ് സോഴ്സ് കപ്പാസിറ്റർ ലൂപ്പുകൾ ഉള്ളപ്പോൾ നിങ്ങൾ ഇത് അടിസ്ഥാനമാക്കി ചെയ്യണം ഇത് കറന്റിന്റെ ഡെൽറ്റ ഫംഗ്ഷനുകളെ ഡിറൈവ് ചെയ്തതിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്നുവെന്ന് പറയുന്നതിന് തുല്യമാണ് അതിനാൽ നിങ്ങൾ എല്ലാ റെസിസ്റ്ററുകളും തുറന്ന് കപ്പാസിറ്റർ വോൾട്ടേജുകൾ നിർണ്ണയിക്കുന്നു എന്നാൽ സത്യത്തിൽ സർക്യൂട്ട് പരിശോധിച്ചുകൊണ്ട് വോൾട്ടേജ് ഉറവിടങ്ങളും കപ്പാസിറ്ററുകളും അടങ്ങിയ ലൂപ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും അതിനാൽ ഈ മൂല്യത്തിൽ നിന്ന് സജ്ജീകരിച്ച മൂല്യങ്ങൾ ഇവയാണ് വീണ്ടും നിർണ്ണയിക്കുന്നതിനായി നിങ്ങൾ വീണ്ടും എല്ലാ കപ്പാസിറ്ററുകളും തുറക്കുന്നു കാരണം പീസ് വൈസ് കോൺസ്റ്റന്റ് ഇൻപുട്ട് പ്രയോഗിക്കുന്നത് കാരണം കപ്പാസിറ്ററിനു കുറുകെ പീസ് വൈസ് കോൺസ്റ്റന്റ് കറന്റ് ആണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ കപ്പാസിറ്ററുകളിലുടനീളമുള്ള വോൾട്ടേജ് വൈദ്യുതധാര സ്ഥിരമാക്കുമ്പോൾ അതാണ് 0 അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻപുട്ടിന് കപ്പാസിറ്റർ വോൾടേജ് കോൺസ്റ്റന്റ് ആയി മാറുകയാണെങ്കിൽ അങ്ങിനെ ഉള്ള സർക്യുട്ടിൽ ഓപ്പൺ സർക്യുട്ട് ചെയ്യാൻ സാധിക്കുകയില്ല പീസ് വൈസ് സ്വഭാവം ഉള്ള ഇൻപുട്ടുകൾക്കു മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളു ഒടുവിൽ ഈ രൂപത്തിലുള്ള പരിഹാരമായിരിക്കും ലഭിക്കുന്നത് ഇത് നമ്മൾ വോൾട്ടേജുകളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയത് പക്ഷേ ഇത് കറന്റ് സ്രോതസ്സായിരിക്കാം ഇത് 0 ആണ് അതിനാൽ ഇത് കണ്ടെത്തുന്നതിന് t0 ആകുമ്പോൾ എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂയിറ്റിസ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ എനിക്ക് ഒരു 0 ഉണ്ടായിരുന്നത് സ്റ്റെപ്പിന്റെ ഒരു നിമിഷത്തിലാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഒന്നിലധികം സ്റ്റെപ്സ് ചെയ്യാനാകും ആദ്യം നിങ്ങൾ ചില സ്റ്റെപ്സ് പ്രയോഗിക്കുമ്പോൾ അത് ചില മൂല്യങ്ങളിൽ എത്തണം അത് അന്തിമ മൂല്യം ആകേണമെന്നില്ല അത് അടുത്ത ഘട്ടത്തിനുള്ള പ്രാരംഭ അവസ്ഥ ആയിരിക്കും അത്രമാത്രം